ബ്ലൂടൂത്ത് ഒരു പാഠപുസ്തകം വായികുന്നത് എല്ലായ്പ്പോഴും ഉപയോഗപ്രദമാണ് റെയ്ലിയുടെ ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് ഗെട്ടിങ് സ്റ്റാർട്ടട് വിത് BLE ദയവായി ഈ പുസ്തകം വായിക്കുക നിങ്ങൾക്ക് BLE മായി ബന്ധപ്പെട്ട നല്ല വിവരങ്ങൾ ലഭിക്കും ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ട് എനിക്ക് അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ക്ലാസിക് ബ്ലൂടൂത്ത് നോക്കുക അതിന്റെ ഡാറ്റ നിരക്ക് വർദ്ധിപ്പിച്ചു തുടർന്ന് ബ്ലൂടൂത്ത് ലോ എനർജി വന്നു പഴയ ബ്ലൂടൂത്തുമായി ഞങ്ങൾക്ക് ഒരു പിന്നോക്ക അനുയോജ്യത ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഡുവൽ മോഡ് സിസ്റ്റങ്ങൾ ആവശ്യമാണ് നിലവിൽ 4 1 ആയ BLE മൊഡ്യൂളുകൾ മാത്രം ആണ് ലഭിക്കുന്നത് 1 ഉം അതിന് മുകളിലുള്ളതും വളരെ പ്രധാനമാണ് വേർഷൻ 5 0 ഇതിനകം തന്നെ ഉണ്ട് ഇത് പൂർണ്ണമായും ഐപി സ്റ്റാക്കിനെ പിന്തുണയ്ക്കുന്നു 2 ഉം അതിന് മുകളിലുള്ളതും മെഷ് ഭാഗത്തെ പിന്തുണയ്ക്കുന്നു അതിനാൽ 4 2 യിൽ മെഷ് സാധ്യമാണ് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുകയും തിരികെ വരികയും ചെയ്താൽ മുൻ വേർഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BLE വേറിട്ടുനിൽക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കാണും കാരണം ഇത് നിങ്ങൾക്ക് മികച്ച സുരക്ഷ നൽകുന്നു ഇത് മെഷ് ചെയ്യുന്നു ഇത് ഐപി സ്റ്റാക്ക് നല്ല അളവിൽ തരുന്നു ഇത് നിങ്ങൾക്ക് നേരിട്ട് ഐപി സ്റ്റാക്ക് നൽകുന്നു റഫർ സമയം 0214 അതിനാൽ നിങ്ങൾ ബ്ലൂടൂത്ത് ഡാറ്റ റേറ്റോ ഡുവൽ മോഡിന്റ സുരക്ഷയോ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും സുരക്ഷയുടെയും ഡാറ്റാ റേറ്റിന്റെയും കാര്യത്തിൽ ഇത് മികച്ചതാണ് ആളുകൾ സെക്കൻഡിൽ 1 മെഗാബൈറ്റിനെക്കുറിച്ചും നിലവിലെ ഉപഭോഗത്തെക്കുറിച്ചും സംസാരിക്കുന്നു കാരണം ഇത് ഹാൻഡ്സ് ഫ്രീ ആപ്ലിക്കേഷന് വേണ്ടിയുള്ളതാണ് അതിനാൽ ക്ലാസിക് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ് സിസ്റ്റങ്ങളിൽ പവർ 1 MBPS വരെ കിട്ടുന്നു അത് വലിയ ഒരു വിഷയമല്ല EDR ലേക്ക് പോകുമ്പോൾ ഇത് ഒരു MBPS ഡാറ്റ നിരക്കുകളെ പിന്തുണയ്ക്കുന്നു 2 അല്ലെങ്കിൽ 3 MBPSന്റെ ഡാറ്റാ നിരക്കുകൾ ഇതിൽ നേടാനാകുമെന്ന് പലരും അവകാശപ്പെടുന്നു അതിനാൽ ഒരു MBPSലും അതിലേറെയും എൻ ഹാൻസ്ഡ് ഡാറ്റ നിരക്കുകളിൽ വരുന്നുവെന്ന് ഞാൻ പറയും ഇതിനായി ഇവ നിലവിൽ ഉള്ള ടെക്നോളജിയുമായി അനുയോജ്യമായിരിക്കണം അതിനാൽ നിങ്ങൾ ഡുവൽ സ്റ്റാക്ക് ചിത്രത്തിലേക്ക് കൊണ്ടുവരണം ചാനലുകളുടെ കാര്യത്തിൽ BLE ഇതിൽ നിന്ന് ഒരു വീഴ്ചയും ചെയ്യേണ്ടതില്ല ക്ലാസിക് ബ്ലൂടൂത്തിന് 79 ചാനലുകൾ ഉണ്ടായിരുന്നു BLE ന് യഥാർത്ഥത്തിൽ 40 ചാനലുകൾ മാത്രമേയുള്ളൂ പരസ്യ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എത്ര എണ്ണം ചെയ്യാമെന്നതിൽ വ്യത്യാസമുണ്ട് മുമ്പത്തെ കേസിൽ 3 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ പരസ്യത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ചാനലുകളുടെ എണ്ണത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല അതിനാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റാൻഡേർഡന്റെ കാര്യത്തിൽ BLE വളരെ പ്രധാനമാണ് ഇത് ഇവന്റ് നയിക്കുന്നതാണ് അതേസമയം മറ്റ് ക്ലാസിക് ബ്ലൂടൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായ്പ്പോഴും ബന്ധിപ്പിച്ച മോഡ് പോലെയായിരുന്നു ഇത് പവർ ശരിക്കും അവിടെ പ്രധാന പോയിന്റല്ലെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഈ ഇവന്റിനെ അപേക്ഷിച്ച് കൂടുതൽ പവർ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് ശരിക്കും പവറിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നു BLE മെഡിക്കൽ ആപ്ലിക്കേഷനുകളുടെ ലോകത്ത് നിരവധി പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അതേസമയം ഹാൻഡ്സ് ഫ്രീ ആപ്ലിക്കേഷനുകൾക്കും ഓഡിയോ ആപ്ലിക്കേഷനുകൾക്കുമായി ക്ലാസിക് ബ്ലൂടൂത്ത് പ്രധാനമായും ഉപയോഗിച്ചു അതിനാൽ വ്യത്യസ്ത തരം പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു സിസ്റ്റങ്ങളുടെ ഘടന പ്രധാനമാണ് ധാരാളം റഫർ സമയം 0554 നോയിസ് ഉള്ളതു കാരണം ഇത് ഫ്രീക്വൻസി ഹോപ്പ് സ്പ്രെഡ് സ്പെക്ട്രം ഉപയോഗിക്കുന്നു മറ്റ് 2 4 ജിഗാ ഹെർട്സ് ഉപകരണങ്ങളിൽ നിന്നുള്ള ഇടപെടലിൽ നിന്ന് പ്രതിരോധശേഷിയുള്ളതിനാൽ ഫ്രീക്വൻസി ഹോപ്പിംഗ് FHSS ഉപയോഗിക്കുന്നു അതിനാൽ BLE സിസ്റ്റത്തിന്റെ അഡാപ്റ്റീവ് ഡാറ്റ കഴിവ് BLE തിരഞ്ഞെടുക്കുന്നതിന് വളരെ താൽപ്പര്യമുണർത്തുന്ന ഒന്നാണെന്ന് തോന്നുന്നു അതിനാൽ വിശാലമായ കാഴ്ചപ്പാടിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാങ്കേതികവിദ്യയാണ് ഒരുപക്ഷേ BLE മറ്റ് ലോ പവർ സാങ്കേതിക വിദ്യകളെ മാറ്റിസ്ഥാപിക്കാനുള്ള സമയമായിരിക്കാം പ്രത്യേകിച്ചും IEEE 802 4 ന് ധാരാളം സാങ്കേതികവിദ്യകളുണ്ടെങ്കിലും 4 A 4 B 4 C 4 G സാങ്കേതികവിദ്യകൾ പ്രധാനമായും സ്മാർട്ട് മീറ്ററിംഗ് ആപ്ലിക്കേഷനുകൾക്കുള്ളതാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അടിസ്ഥാന 15 4 പ്രോട്ടോക്കോളിന്റെ വ്യത്യസ്ത വകഭേദങ്ങളിൽ സംഭവിക്കുന്ന രസകരമായ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നാൽ അതേ സമയം ലോ പവർ സെൻസർ നെറ്റ്വർക്ക് ആപ്ലിക്കേഷനായുള്ള മുൻനിര സാങ്കേതികവിദ്യയിൽ ഒന്നായിരിക്കും BLE എന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇവയെല്ലാം ചേർത്ത് ഇതിനെ വളരെ ആവേശകരമായ ഒരു പ്രോട്ടോക്കോൾ ആക്കുന്നു ഇതിൽ വളരെ ആവേശകരമായി തോന്നുന്നത് ഈ 4 2 ഉം 5 0 ഉം ആണ് കാരണം അവ പരസ്പരം വളരെ അടുത്താണ് യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം BLE 4 2 ന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു MPBS 5 0 രണ്ട് MPBS ആണ് തരുന്നത് ഈ കേസിൽ പരിധി 30 മീറ്ററാണ് അവർ 4 മടങ്ങ് പറയുന്നു 120 മീറ്ററിനും 150 മീറ്ററിനും ഇടയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അ ഡ്വവർടൈസ്മെന്റ് പാക്കറ്റ് രണ്ട് കേസുകളിലും എൻക്രിപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും 31 ബൈറ്റുകളായി മാത്രമേ പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ 5 0 ന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 56 ബൈറ്റുകളിലേക്ക് പോകാം ഏത് നോഡാണ് ഡാറ്റ എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ അട്വർ ടൈസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രയോജനം അത് തിരഞ്ഞെടുത്ത് ഡീകോഡ് ചെയ്യാൻ കഴിയും ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കുക ഇത് ഒരു നല്ല കാര്യമാണ് മുമ്പത്തെ കേസിലെ പ്രശ്നം 31 ബിട്സായി പരിമിതപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ 256 ബൈറ്റുകൾ പേലോഡ് ലഭിക്കുന്നു അത് സാധ്യമാണ് മാത്രമല്ല അട്വർടൈംസ് മെന്റെ ചാനലുകൾ പോലും 4 2 ൽ 3 ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇപ്പോൾ എത്ര എണ്ണം വേണമോ അട്വർടൈംസ്മെന്റെആവശ്യങ്ങൾക്കായി നിയോഗിക്കാം ആകർഷകമായ കാര്യം നിങ്ങൾക്ക് ഐപി സ്റ്റാക്ക് 5 0 ൽ ലഭിക്കും ഐപിവി 6 സ്റ്റാക്ക് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനു മുന്പ് ഇത് വളരെയധികം ഉപയോഗിച്ചിരുന്നു അതിനാൽ ഇതാണ് ഇപ്പോൾ വലിയ നിലവാരമുള്ളത് ഇത് ഇപ്പോൾ വൈ ഫൈയുടെ ഏറ്റവും അടുത്ത കസിൻ ആയിത്തീർന്നിരിക്കുന്നു ഇത് നിങ്ങൾക്ക് പൂർണ്ണ ഐപി കണക്റ്റിവിറ്റിയും മറ്റും വാഗ്ദാനം ചെയ്യും സിഗ്ബി തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇപ്പോൾ പറയാൻ പ്രയാസമാണ് കാരണം ഇപ്പോൾ BLE 4 2 ഉം അതിനുമുകളിലുള്ളതുമായി മെഷ് ചെയ്യാനുള്ള കഴിവ് ഉയർന്നിട്ടുണ്ട് അത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു മാസ്റ്റർ സ്ലേവ് ഉപകരണങ്ങളും മാസ്റ്ററിനും സ്ലേവിനുമിടയിൽ പോകാൻ ഉപയോഗിച്ച എല്ലാ ഡാറ്റയും ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ BLE എങ്ങനെ ആരംഭിച്ചു ഇതിന് 7 സ്ലേവുകളും ഒരു മാസ്റ്ററും ഉണ്ടായിരുന്നു മാസ്റ്റർ സ്ലേവ് എന്ന ഈ ആശയം ഇപ്പോൾ 4 2 നെക്കുറിച്ചും അതിനു മുകളിലുമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും ഒന്ന് മുതൽ പലതും പോയിന്റ് ടു പോയിന്റ് പോയിന്റ് ടു മൾട്ടി പോയിന്റ് മൾട്ടി പോയിന്റ് ടു മൾട്ടി പോയിന്റ് അതായത് അവ പൂർണ്ണമായും കണക്റ്റുചെയ്ത മെഷ് നെറ്റ്വർക്ക് ആണ് 2 5 0 എന്നിവയിൽ ഇത് വളരെ ആകർഷകമാണ് ഇത് BLEയുടെ കാര്യത്തിന് സമാനമായി മെഷ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ കാര്യങ്ങളുടെ ഇൻറർനെറ്റിനായി സമ്പന്നമായ വയർലെസ് പ്രോട്ടോക്കോളുകൾ തർക്കിക്കുന്നത് തീർച്ചയായും BLE നെ ഉൾക്കൊള്ളുന്നു ചെറിയ ശ്രേണിയിലുള്ള കുറഞ്ഞ എനർജി ആപ്ലിക്കേഷനുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ കുറഞ്ഞ എനർജിക്കും ദൈർഘ്യമേറിയ ശ്രേണികൾക്കും Wi Fi ഉപയോഗിക്കാം അതിനാൽ BLE നായി നോക്കുക BLE 4 2 ഉം അതിനുമുകളിലുള്ളവയും നിങ്ങളുടെ പല ആപ്ലിക്കേഷനുകൾക്കും യഥാർത്ഥത്തിൽ രൂപം നൽകുന്ന രീതി നോക്കുക ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ വിയറബിൾസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് IOT രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു വലിയ മേഖലയാണ് വിയറബിൾസ് രണ്ടാമത്തെ രസകരമായ കാര്യം ലോക്കലൈസേഷനുകളുടെ ആവശ്യകതകളിലേക്ക് BLE പോയിട്ടുണ്ട് എന്നതാണ് വയർലെസ് നെറ്റ്വർക്കുകൾക്ക് യഥാർത്ഥത്തിൽ നൽകാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് സിഗ്നലിന്റെ ശക്തി സൂചന ലഭിക്കുന്നത് RSSI യിൽ നിന്ന് ആണ് അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്നത് ഒരു ട്രാൻസ്മിറ്ററിനെക്കുറിച്ചും ഒരു റിസീവറിനെക്കുറിച്ചും ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഈ ദൂരത്തെക്കുറിച്ചും ആണ് ഇത് ലൈൻ ഓഫ് സൈറ്റ് ആണെങ്കിൽ നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന പാത്ത് നിയമങ്ങളുടെ ആവിഷ്കാരത്താൽ ഇത് നിയന്ത്രിക്കാനാകും നിങ്ങൾ ഇത് ഒരു റഫർ സമയം 1207 ഫ്രിസ് നിയമമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും ലഭിച്ച പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് പവർ അറിയാൻ കഴിയും ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള റെയിഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് പ്രധാനമായും BLEയിൽ ഉപയോഗിക്കുന്ന RSSI അടിസ്ഥാനമാക്കിയുള്ള ലോക്കലൈസേഷന്റ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഒരു മാളിലേക്കോ സൂപ്പർമാർക്കറ്റിലേക്കോ പോകാൻ എനിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിയും നിങ്ങൾ മാളിലോ സൂപ്പർമാർക്കറ്റിലോ പ്രവേശിക്കുമ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത ആദ്യത്തെ ബീക്കൺ പ്രവർത്തിക്കും ബീക്കൺ അടിസ്ഥാനപരമായി ബാറ്ററിയുള്ള ഒരു ചെറിയ BLE ഹാർഡ്വെയർ ഉപകരണമാണ് ഇത് ഒരു നിശ്ചിത ട്രാൻസ്മിഷൻ പവർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ അഡ്വർടൈംസ്മെന്റ് പാക്കറ്റുകൾ അയയ്ക്കുന്നു ട്രാൻസ്മിഷൻ പവർ നോക്കുമ്പോൾ കയ്യിൽ സ്മാർട്ട് ഫോണുമായി നടക്കുന്ന ഒരു ഉപയോക്താവ് ഉണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതാണ് ഇടനാഴി സ്ഥലം ഈ ഇടനാഴിയിലെവിടെയോ ഒരു ചെറിയ ബീക്കൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ബീക്കണിൽ പ്രധാനമായും BLE ഹാർഡ്വെയറും ഒരു ബാറ്ററിയും ഉണ്ട് BLE ഹാർഡ്വെയറും ബാറ്ററിക്കും 10 വർഷത്തെ ആയുസ്സ് എന്നാണ് അർത്ഥമാക്കുന്നത് കയ്യിൽ ഒരു മൊബൈൽ ഫോണുള്ള ഒരു ആളുണ്ട് അയാൾ ഈ ഇടനാഴിയിലൂടെ നടന്ന് അടുത്തുള്ള ജംഗ്ഷൻ പോയിന്റിലെത്തുന്നു അയാൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ഷോപ്പിംഗ് നടത്തണം ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ബീക്കൺ ഉണ്ട് ഒരു വസ്ത്ര ഷോപ്പ് കൈച്യ്യിലുളള ഫോണിന്റെ അടുത്താണെന്ന് കരുതുക ചില പോപ്പ് അപ്പ് സന്ദേശങ്ങൾ വരും അത് ഈ വസ്ത്ര ഷോപ്പിനെക്കുറിച്ച് എന്തെങ്കിലും നോക്കാൻ അവനെ അനുവദിക്കുന്നു അത് എങ്ങനെ സാധിക്കും വസ്ത്ര ഷോപ്പിന് ഒരു വെബ്സൈറ്റ് ഉള്ളതിനാൽ അത് സാധ്യമാണ് ഇപ്പോൾ അദ്ദേഹം അടുത്തെത്തുമ്പോൾ പരസ്യത്തിനുപകരം URL വഹിക്കുന്ന ഒരു ബീക്കൺ സ്മാർട്ട് ഫോണിലൂടെ പിടിക്കപ്പെടുന്നു ഉടനെ ബ്രൌസർ തുറന്ന് വസ്ത്ര ഷോപ്പ് വെബ്സൈറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്നു ആകർഷകമായ ഓഫറുകളാണ് വെബ്സൈറ്റിൽ ഉള്ളത് ഇത് പോയി വാങ്ങാൻ ഉപയോക്താവിനെ പ്രേരിപ്പിക്കുന്നു ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ചില്ലറ വ്യാപാരികളെ വെണ്ടർമാരെ അനുവദിക്കും നല്ല വിൽപ്പനയുണ്ട് ഉപയോക്താക്കൾക്ക് അവർ തിരയുന്നതിനെ ആശ്രയിച്ച് ഒരു നല്ല ഡീൽ നേടാനും കഴിയും അതിനാൽ ഇത് ശരിക്കും ഒരു നല്ല ആവാസവ്യവസ്ഥയാണ് നിങ്ങൾ നടക്കുമ്പോൾ ഈ ചെറിയ BLE ഹാർഡ്വെയർ പ്ലസ് ബാറ്ററി ഉപകരണത്തിൽ നിന്ന് ഒരു URL വരുന്നു വെബ്സൈറ്റ് തുറക്കുന്നു ഫോണിൽ ഇൻസ്റ്റാളുചെയ്ത അപ്ലിക്കേഷനോ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനോ IOS അപ്ലിക്കേഷനോ ഇല്ല നിങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു ഇതെല്ലാം എങ്ങനെ സാധ്യമാണ് കാരണം ബീക്കണിംഗ് ബീക്കൺ ഒരു വലിയ സാങ്കേതികവിദ്യയാണ് കൂടാതെ BLE യുടെ മറ്റ് സവിശേഷതകളിലേക്ക് നീങ്ങുന്നതിനുമുമ്പ് ഞാൻ ബീക്കൺ സാങ്കേതികവിദ്യയിലേക്ക് പോകുന്നു ലോക്കലൈസേഷന്റെ ആവശ്യങ്ങൾക്കായി ബീക്കണുകളുടെ ഉപയോഗം ആദ്യം ആരംഭിച്ചത് ആപ്പിൾ ആണ് അവർ അതിനെ i ബീക്കൺ എന്ന് വിളിച്ചു i ബീക്കൺ ന് പ്രത്യേകിച്ചൊന്നുമില്ല ഏത് വെണ്ടർമാരിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന അതേ ഹാർഡ്വെയറാണ് ഇത് BLE ഫ്രെയിം ഫോർമാറ്റ് മാത്രമേ ഒരു പ്രത്യേക ഓർഡർ ഘടനയെ പിന്തുടരുകയുള്ളൂ മാത്രമല്ല ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡുചെയ്യാൻ കഴിയുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ആ ഘടന മനസ്സിലാക്കുന്നു നിങ്ങൾ എവിടെയാണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചും മറ്റും ഇത് കുറച്ച് കാര്യങ്ങൾ പറയും അതായിരുന്നു iബീക്കൺ സാങ്കേതികവിദ്യ ഇത് ആപ്പിൾ വഴിയായിരുന്നു ആപ്പിൾ എന്തെങ്കിലും ചെയ്താൽ ഗൂഗിൾ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല അതിനാൽ ഗൂഗിൾ സ്വന്തമായി സാങ്കേതികവിദ്യ കൊണ്ടുവന്ന് അതിനെ ഓപ്പൺ സോഴ്സ് ആക്കുകയും എഡ്ഡിസ്റ്റോൺ എന്ന് വിളിക്കുകയും ചെയ്തു ഇതും ഒരു ബീക്കൺ സാങ്കേതികവിദ്യയാണ് നിങ്ങൾ ഒരു അപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എഡ്ഡിസ്റ്റോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾ നിങ്ങൾക്ക് നൽകും അതിലൂടെ ഞങ്ങൾക്ക് ഒരു URL അയക്കാനും കഴിയും അതിനാൽ എഡ്ഡിസ്റ്റോൺ സാങ്കേതികവിദ്യ നൽകുന്ന ഒന്നാണ് ഇത് അതിനാൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരിക്കാം അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കാം കൂടാതെ നിങ്ങൾക്ക് ഒരു എഡ്ഡിസ്റ്റോൺ URL ബീക്കൺ സന്ദേശം ലഭിക്കുന്നുണ്ടാകാം കൂടാതെ എഡ്ഡിസ്റ്റോൺ തരത്തിലുള്ള URL സന്ദേശവും നിങ്ങളെ വസ്ത്ര ഷോപ്പ് വെബ്സൈറ്റ് തുറക്കാൻ സഹായിക്കും ഇപ്പോൾ ഉപയോക്താവ് വസ്ത്രക്കടയിൽ പ്രവേശിക്കുന്നു അതിനാൽ അവൻ പ്രവേശിക്കുമ്പോൾ ഈ വസ്ത്രക്കട ഒരു വലിയ വിൻഡോയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഞാൻ വസ്ത്ര ഷോപ്പിനായി ഒരു പ്രവേശന കവാടം ഇടട്ടെ അല്ലാത്തപക്ഷം ഉപയോക്താവിന് ഒരു ബിസിനസ്സും ഉണ്ടാകില്ല അതിനാൽ ഇപ്പോൾ ഉപയോക്താവ് വസ്ത്രക്കടയിൽ പ്രവേശിക്കുമ്പോൾ ഈ കോണിൽ ഒരു വിൽപ്പന കാണുന്നു ഇവിടെ സൂചിപ്പിച്ച ഒരു വിൽപ്പന 30 ശതമാനം അല്ലെങ്കിൽ ചില വസ്ത്രത്തിന്റെ 40 ശതമാനം പറയുന്നു ഇപ്പോൾ അദ്ദേഹം അകത്ത് ബീക്കണുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷോപ്പിനുള്ളിൽ മികച്ച ഡിസ്കൌണ്ട് വിൽപ്പന എവിടെയാണെന്ന് ഫോണിലുള്ള ഉപയോക്താവിനോട് ഇതിനകം തന്നെ പറയുന്നുണ്ട് ഇത് ഷോപ്പിനുള്ളിലാണെന്ന് ശ്രദ്ധിക്കുക ഇത് ഇടനാഴിയിൽ ഇടപെടുന്നില്ല അതിനർത്ഥം നിങ്ങൾ ട്രാൻസ്മിറ്റ് പവർ നിയന്ത്രിക്കുകയും നിങ്ങൾ ബീക്കണിന്റെ വ്യാപ്തി ചെറുതാക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങാൻ ഉപയോക്താവിനോട് ആവശ്യപ്പെടാൻ നിങ്ങൾ അവനെ പ്രേരിപ്പിക്കുന്നു അത് വസ്ത്രത്തിൽ ഷോപ്പ് പരമാവധി കിഴിവ് നൽകും ഇപ്പോൾ അയാൾ നീങ്ങുകയും വിൽപ്പന സ്ഥിതിചെയ്യുന്ന സ്റ്റാൻഡിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ ഷോപ്പിനുള്ളിലെ പരമാവധി ഡിസ്ഹ്കൌണ്ട് ഉള്ള സ്ഥലമാണിതെന്ന് അവിടെ അത് പറയും ട്രാൻസ്മിഷൻ പവർ നിയന്ത്രിച്ച് ഈ ബീക്കണുകൾ ഉപയോഗിച്ച് ഉപയോക്താവിന് ചുറ്റും വലുതും ഇടത്തരവുമായ ശ്രേണി സൃഷ്ടിച്ചുകൊണ്ട് ഇവയെല്ലാം മനോഹരമായി നടക്കുന്നു അതിനാൽ ഇത് വളരെ രസകരമായ ഒരു സാങ്കേതികവിദ്യയാണ് iബീക്കൺ നെക്കുറിച്ച് ഞാൻ പലതും പറഞ്ഞു ആപ്പിൾ ഫോണുകളിൽ മാത്രമേ iബികോൺ പ്രവർത്തിക്കൂ എന്നത് ശരിയല്ല BLE ന് മുകളിലുള്ള ഒരു ഫ്രെയിം ഘടനയാണ് i ബീക്കൺ സാങ്കേതികവിദ്യ ഈ ഫ്രെയിം ഘടന Android ഫോണുകളിലും പ്രവർത്തിക്കുന്നു അതിനാൽ സ്വയം നിയന്ത്രിക്കരുത് ഐബികോൺ ആപ്പിൾ ഫോണുകൾക്ക് മാത്രമുള്ളതാണെന്ന് ലോക്ക് ചെയ്യരുത് എഡ്ഡിസ്റ്റോണിലും മറ്റ് തരത്തിലുള്ള ബീക്കൺ തരങ്ങളുണ്ട് ഈ ഉദാഹരണവുമായി വളരെ അടുത്തതായി തോന്നുന്ന ഒന്ന് ഞാൻ എടുക്കാം BLE ഉപയോഗിച്ച് സാധ്യമായ അപ്ലിക്കേഷനുകൾ മനസിലാക്കാൻ i ബീക്കൺ എസ്സിസ്റ്റോൺ എന്നിവ ഒരുമിച്ച് നോക്കുക എഡ്ഡിസ്റ്റോണിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉണ്ട് അതിനെ എഡ്ഡിസ്റ്റോൺ UID എന്ന് വിളിക്കപ്പെടുന്നു കൂടാതെ എഡ്ഡിസ്റ്റോൺ TLM എന്ന മറ്റൊന്ന് ഉണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും അവ പരിശോധിച്ച് കാണാനാകും എല്ലാം നിങ്ങൾക്ക് ഒരു ഓപ്പൺ സോഴ്സ് ആണ് നിങ്ങൾക്ക് ഗിത്തബിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ പരിഹാരങ്ങൾ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും അതിനാൽ ലോക്കലൈസേഷനുവേണ്ടിയുള്ള രണ്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് ആരംഭിച്ച സ്ഥലത്തേക്ക് മടങ്ങാം ഇവിടെ നിങ്ങൾ ബീക്കൺ സാങ്കേതികവിദ്യയെക്കുറിച്ചും രസകരമായ ഒരു കാര്യമായ വേരിയബിൾ സ്പെയ്സിനെക്കുറിച്ചും സംസാരിക്കുന്നു കാരണം ഇതിന് വളരെ ആകർഷകമായ സുരക്ഷാ സവിശേഷതയുണ്ട് സുരക്ഷയിലുടനീളം ഞാൻ പറഞ്ഞത് ഓർക്കുക സുരക്ഷയില്ലാതെ ഇന്റർനെറ്റ് പരാജയപ്പെടും നിങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത ശതകോടിക്കണക്കിന് ഉപകരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതിനാൽ ആശയവിനിമയ സുരക്ഷ തീർച്ചയായും നിർണായകമാണ് BLE 4 2 ന്റെ സുരക്ഷാ സവിശേഷതകൾ മനസിലാക്കാൻ ഞങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ സജ്ജീകരിക്കുന്നതിന് കുറച്ച് സമയം ചെലവഴിക്കും എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് 4 2 നന്നായി അറിയാമെങ്കിൽ 5 0 ന്റെ സുരക്ഷാ സവിശേഷതകൾ ഞങ്ങൾക്ക് അറിയാമെന്ന് നമുക്ക് ഇതിനകം ഒരു അനുമാനം ഉണ്ടാക്കാൻ കഴിയും കാരണം വ്യത്യാസങ്ങൾ വളരെ കുറവാണ് അതിനാൽ ഞാൻ ഡെമോയിൽ നിന്ന് ആരംഭിക്കാം മാധുരിയും അനുജയും ഇവിടെയുണ്ട് ഇവിടെ കൈയ്യിൽ ഫോൺ ഒന്നും ഫോൺ രണ്ടും ഉണ്ട് ഫോൺ 1 അഡ്വർടൈസ് ചെയ്യുകയാണ് എനിക്ക് ഒരു ആന്റിന കാണിക്കേണ്ടതുണ്ട് അങ്ങനെ BLE ആന്റിനയും തുടർന്ന് ഒരു റിസീവർ ആന്റിനയും ഉണ്ട് പൂർണ്ണതയ്ക്കായി നമുക്ക് രണ്ട് ആന്റിനകൾ ഇടാം ഇവ രണ്ട് ഫോണുകളാണ് അവ Android ആകാം അവ എന്തും ആകാം ഈ ഡെമോയുടെ ആശയം സ്വകാര്യതയെക്കുറിച്ചുള്ളതാണ് അഡ്രസ് റെസല്യൂഷൻ ഭാഗം RPA റിസോൾവബിൾ പ്രൈവറ്റ് അഡ്റസ് എന്നും അറിയപ്പെടുന്നു എന്നതാണ് BLF 4 2 ലും അതിനുമുകളിലുമുള്ള മികച്ച സവിശേഷതകളിൽ ഒന്ന് ഈ ഫോൺ ഒന്ന് തുടർച്ചയായി മാറുന്നു എന്നാണ് ഇതിനർത്ഥം ഇഥർനെറ്റിലെ MAC വിലാസത്തിന് തുല്യമായത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ക്രമരഹിതമായി ഇത് ഒരു MAC വിലാസം സൃഷ്ടിക്കുന്നു പക്ഷേ ഇത് ഫോൺ 2 വിജയകരമായി ഡീകോഡ് ചെയ്യുന്നു അതാണ് ഈ ഫോൺ തുടർച്ചയായി ക്രമരഹിതമായ MAC വിലാസങ്ങൾ ലിങ്ക് ലെയർ അഡ്രസുകൾ സൃഷ്ടിക്കുന്നത് ലിങ്ക് ലെയർ അഡ്രസ് ക്രമരഹിതമാണെങ്കിലും IDK എന്നും വിളിക്കുന്ന ഐഡന്റിറ്റി റിസോൾവിംഗ് കീ എന്നറിയപ്പെടുന്നത് ഫോൺ രണ്ടിന് പിടിക്കാൻ കഴിയും എന്താണ് IRK IRK ഒരു ഷെയേർഡ് കീയാണ് നിങ്ങൾ എങ്ങനെ ഒരു ഷെയേർഡ് കീ സൃഷ്ടിക്കും എക്ലക്റ്റിക് കർവ് അൽഗോരിതം ഉപയോഗിച്ച് ഒരു ഷെയേർഡ് കീ ജനറേറ്റുചെയ്യുന്നു റഫർ സമയം 2513 ഷെയേർഡ് കീ ജനറേഷൻ ഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയില്ല പക്ഷേ ജോടിയാക്കുന്ന സമയത്ത് ഈ ഷെയേർഡ് കീ ലഭ്യമാണ് ഈ IRK അപ്ഡേറ്റ് ഷെയേർഡ് രഹസ്യം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉപകരണങ്ങളുടെ ഈ സ്വകാര്യതയിലേക്ക് ഏതൊരു വ്യക്തിക്കും നുഴഞ്ഞുകയറുന്നത് വളരെ പ്രയാസകരമാക്കുന്നതിന് ഒരു നിമിഷം മുതൽ 11 5 മണിക്കൂർ വരെ എപ്പോൾ വേണമെങ്കിലും ഷെയേർഡ് കീ മാറ്റുന്നത് തുടരുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പൊതു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്കറിയാത്ത നിരവധി ഉപകരണങ്ങൾ ഉപയോഗിച്ച് IR K മാറ്റുന്നത് തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഹാക്കർമാരായ പല തരത്തിലുള്ള ഉപകരണങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അതിനാൽ നിങ്ങൾ എവിടെയാണെന്നതിനെ ആശ്രയിച്ച് കഴിയുന്നത്ര തവണ IRK കീ മാറ്റാൻ കഴിയും ഇത് നിങ്ങളുടെ വീടിനകത്താണെങ്കിൽ സുരക്ഷയെക്കുറിച്ച് വളരെയധികം വിഷമിക്കേണ്ടതില്ല കാരണം ഇത് ഒരു ചെറിയ സ്വകാര്യ സ്ഥലo മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഇത് 11 12 മണിക്കൂർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അനുവദിക്കുന്നതെന്തും സജ്ജമാക്കാൻ കഴിയും അതിനാൽ ഓഫീസ് മുതലായ പൊതു സ്ഥലങ്ങളിൽ കഴിയുന്നത്രയും തവണ നിങ്ങൾക്ക് IRK മാറ്റാൻ കഴിയുന്നു 4 2 നെക്കുറിച്ചുള്ള ഒരു നല്ല കാര്യം വൈറ്റ് സ്പേസിംഗിനൊപ്പം നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി റിസോൾവിംഗ് കീ ഉപയോഗിക്കാം എന്നതാണ് ഞങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റിംഗും വൈറ്റ് ലിസ്റ്റിംഗും ഉണ്ട് IRK പ്ലസ് വൈറ്റ് ലിസ്റ്റിംഗ് സാധ്യമാണ് ഈ കോമ്പിനേഷൻ കാരണം ഈ ഫോൺ Aയും ഫോൺ Bയും തമ്മിലുള്ള കണക്ഷൻ ശരിക്കും വേഗത കൈവരിക്കുന്നു അതിനു ഫലമായി എനർജി ഒരു പരിധി വരെ ലാഭിക്കാം ഇതിന്റെ ഒരു ഡെമോ നമുക്ക് നോക്കാം അട്വർടൈസ് ചെയ്യുന്ന ഫോണാണിൽ ഈ രണ്ട് ഉപകരണങ്ങളുടെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ടecurity നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഉപകരണം ഇപ്പോൾ MAC വിലാസം ഫ്ലാഷ് ചെയ്യുന്നതായി നിങ്ങൾക്കു കാണാം അതിനാൽ ഫ്ലാഷ് ചെയ്ത MAC വിലാസം 61 553406 b 454 ആണ് ഇത് RSSIന് ലഭിച്ച സിഗ്നൽ ആണ് ഇത് റിസീവറിൽ ലഭിച്ചു റഫർ സമയം 2806 ഇനി ഇതു ചെയ്യുന്നത് നിർത്താം അത് പ്രക്ഷേപണം നിർത്തിയതായി നിങ്ങൾക്ക് വീണ്ടും കാണാം ഇനി ഞങ്ങൾ ഇത് വീണ്ടും ഇരുപോലെ ചെയ്യാൻ തുടക്കും മാധുരി ഇത് ചെയ്യുകയാണ് ഇത്തവണ ഇത് മറ്റൊരു റാൻഡം MAC വിലാസമാണ് കാണിക്കുന്നത് 6 b 203 f 7822 0 0 നമുക്ക് ലഭിച്ച സിഗ്നൽ 40 ആണ് ഇപ്പോൾ ഇത് 52 ആണ് ഞാൻ അത് അകലെ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് 65 ആകും അതിനെ കൂടുതൽ അടുപ്പിച്ചാൽ അത് 49 ആകും ഇതിൽ നിന്ന് നിങ്ങൾക്ക് റേഞ്ചിംഗ് സാധ്യമാകുമെന്ന് കാണാൻ കഴിയും ലോക്കലൈസേഷൻ സാധ്യമാണ് ഇത് പോക്കറ്റിലെ ഫോണാണെന്നും ഇത് ബീക്കണാണെന്നും കരുതുക റെയിഞ്ച് യഥാർത്ഥത്തിൽ സാധ്യമാണെന്ന് നിങ്ങൾ കാണും അതിനാൽ ഞങ്ങൾ സെക്യൂരിറ്റിയെ പറ്റി പറയുമ്പോൾ അവിടെ റേഞ്ചിഗ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും RSSI വളരെ ഫലപ്രദമായി ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതു പോലെ ബീക്കൺ സാങ്കേതികവിദ്യയും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇത് റഫർ സമയം 2924 പ്ലാറ്റ്ഫോം SOCS ന്റെ നോർഡിക് NRF സീരീസിനു വേണ്ടിയുള്ളതാണ് നിങ്ങൾ IRKയെക്കുറിച്ചും ഇൻ്റർവെല്ലിനെക്കുറിച്ചും C കോഡിൽ പറയുന്ന ഭാഗം നോക്കാം ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ശെയേഡ് കീ സാഹചര്യം അനുസരിച്ച് മാറ്റേണ്ടിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു BLE ഇൻറ്റർവെൽ സമയം സോഴ്സ് കോഡിൽ ഉള്ള ഈ ഘടനയനുസരിച്ച് മാറുന്നു ഇൻപുട്ട് ചെയ്യുന്ന കസ്റ്റം പ്രൈവറ്റ് അഡ്രസ് സൈക്കിൾ ഇൻറ്റർവെൽ സെക്കൻഡിൽ ആണ് പറയുന്നത് നിങ്ങൾക്ക് ഇൻറ്റർവെൽ 11 5 മണിക്കൂർ വരെ മാറ്റാൻ കഴിയും അതിനാൽ ഇത് IRKയുടെ അപ്ഡേറ്റ് ഇൻറ്റർവെലാണ് ഈ അപ്ഡേറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ ഷെയേർഡ് കീ ഈ രണ്ട് ഉപകരണങ്ങളിലും വീണ്ടും പ്രൈം ചെയ്യേണ്ടി വരുന്നു പുതിയ ഷെയേർഡ് കീ ഇപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളിലും ലഭ്യമാണ് വീണ്ടും അവ തുടരാം രണ്ട് ഉപകരണങ്ങൾക്കിടയിൽ ഡാറ്റാ കൈമാറ്റം നടക്കുമ്പോഴെല്ലാം അവർക്ക് അവരുടെ സ്വകാര്യത നിലനിർത്താൻ കഴിയും BLE 4 2വിൽ മാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം 2 5 0 മാത്രം നമുക്ക് നോക്കാം ഇവിടെ ഇവയെ നിരന്തരം നിരീക്ഷിക്കുന്ന രണ്ട് പാസീവ് ഉപകരണങ്ങൾ ഉണ്ട് ഇവയിൽ ഒന്ന് എംബെടെട് ഉപകരണമാണ് മറ്റൊന്ന് ഒരു ഫോണാണ് ഒരു ഉപഭോക്താവിന് ഡാറ്റ ആവശ്യമാണെങ്കിൽ അത് ഒരു സെക്യൂവർ ലിങ്കിലൂടെ ആക്സസ് ചെയ്യണം ഈ ലിങ്ക് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഷെയേർഡ് കീയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് ഓർത്തു നോക്കൂ ഷെയേർഡ് കീ അവസാന രണ്ട് ഉപകരണങ്ങളിലും ലഭ്യമാണ് ലിങ്കിന്റെ ഈ വശം എൻക്രിപ്ഷൻ ആരംഭിക്കുന്നു എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഈ ലിങ്കിലൂടെ സുരക്ഷിതമായി കൈമാറുകയും ഡീക്രിപ്റ്റ് ചെയ്ത് അത് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പാസ് കീ വളരെ പ്രയോജനമുള്ള ഒന്നാണ് പാസ് കീ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഈ ഡാറ്റയിലേക്കുള്ള ആക്സസ് സാധ്യമല്ല ലിങ്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പാസ് കീ നമ്മൾ ടൈപ്പ് ചെയ്യണം നമ്മൾ പാസ് കീ ടൈപ്പുചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഡാറ്റ ആക്സസ് സാധ്യമാകൂ അല്ലെങ്കിൽ ഒന്നും നൽകില്ല നിങ്ങൾക്ക് ടിവൈസുകൾക്കിടയിൽ കണക്റ്റുചെയ്യാൻ കഴിയും ഇത് കൂടുതലും ഇത് കണക്റ്റുചെയ്തിരിക്കുന്നത് ബോണ്ടിംഗ് മോഡിലാണ് ഞങ്ങൾ ഇതിനെ ഔട്ട്പുട്ട് ടിവൈസ് എന്നും ഇൻപുട്ട് ടിവൈസ് എന്നും വിളിക്കുന്നു ഔട്ട്പുട്ട് ടിവൈസ് ഇതാണ് ഫോണിന് ഡിസ്പ്ലേയും കീബോർഡും ഉള്ളതിനാൽ പാസ് കീ ടൈപ്പുചെയ്യാൻ കഴിയും ഈ ടിവൈസിലാണ് ഡാറ്റയുള്ളത് ഇതിന് ഡിസ്പ്ലേ കീബോർഡ് തുടങ്ങിയ IO കഴിവുകൾ ഇല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഇൻപുട്ട് ടിവൈസ് കൂടിയാണ് 4 അസോസിയേഷൻ മോഡലുകൾ ആണ് ഉള്ളത് ഞാൻ ഓരോന്നായി എഴുതാം പിന്നെ ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു അസോസിയേഷൻ മോഡലിനെ മാത്രം ആയി ന്യൂമറിക്ക് കമ്മ്പാരിസൺ എന്ന് പറയുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ 6 അക്ക പാസ്വേഡാണ് പാസ് കീ ഇവ താരതമ്യം ചെയ്യുമ്പോൾ ശെരിക്കും രണ്ട് ഉപകരണങ്ങളും 6 അക്ക നമ്പർ കാണിക്കുന്നു ഇതിനാൽ ഇതിന് ഒരു IO കഴിവ് ഉണ്ടാകില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേയും കീബോർഡും ആവശ്യമാണ് നിങ്ങൾക്ക് ഒരു എംബഡഡ് ഉപകരണം ഉണ്ടാകുകയും അതേസമയം ഡിസ്പ്ലേയും കീബോർഡും ആവശ്യമില്ലെങ്കിൽ അത് ഒരു തരം അസോസിയേഷനാണ് അത് ഞങ്ങൾ ടിമോൺസ്ട്രേഷനിൽ കാണിക്കും നിങ്ങൾക്ക് രണ്ടു സ്ഥലങ്ങളിലും ഫോണുകൾ ആകാം അതിനർത്ഥം ഡിസ്പ്ലേയും കീബോർഡും ലഭ്യമാണ് നിങ്ങൾക്ക് രണ്ടു സ്ഥലങ്ങളിലും ഫോണുകളുണ്ടെങ്കിൽ ടിവൈസ് ഡിസ്പ്ലേ ഉള്ളിടത്ത് നിങ്ങൾക്ക് ന്യൂമറിക്സ് താരതമ്യം ചെയ്യാം ഒരു 6 അക്ക നമ്പർ അത് ടിസ്പ്ലെ ചെയ്യുകയും യൂസർ അതിനെ ഓതെൻ്റികേറ്റ് ചെയ്യുകയും ചെയ്യും രണ്ട് ഉപകരണങ്ങളും ഒരേ സംഖ്യയാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ അത് ശെരിയാണെന്നു പറയാം അസോസിയേഷൻ മോഡൽ യഥാർത്ഥത്തിൽ കുറഞ്ഞ എനർജി സെക്യൂറിറ്റി കണക്ഷനുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് 2ഉം അതിനു മുകളിലുള്ള DLEയും വളരെ പ്രധാനമാണ് മുമ്പത്തെ വെർഷനുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും മെന്നതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ല രണ്ടാമത്തെ രീതിയിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമെ ചെയ്യാൻ കഴിയുകയുള്ളു ഔട്ട്പുട്ട് ഡിവൈസ്റ്റ് അത് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു വശത്ത് കീബോർഡും ഡിസ്പ്ലേയും ഉപയോഗിച്ച് പാസ് കീ നൽകുന്നു മറുവശത്ത് ഞാൻ ഇവിടെ കാണിച്ചതു പോലെ അതിന് ഡിസ്പ്ലേയും കീബോർഡും ഇല്ല ലെഗസി മോഡലുകളെ താരതമ്യം ചെയ്യുമ്പോൾ BLEയിൽ പാസ് കീ കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നത് ഒരു പ്രധാന മെച്ചപ്പെടുത്തലാണ് യൂസർ രണ്ട് ഉപകരണങ്ങളിലുമോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേയിലേക്ക് സമാനമായ പാസ് കീ ഇൻപുട്ട് ചെയ്യുകയോ ചെയ്യുന്നു ഒരു ഡിവൈസ് പാസ് കീ പ്രദർശിപ്പിക്കുകയും യൂസർ മറ്റ് ഉപകരണങ്ങളിലേക്ക് പാസ് കീ നൽകുകയും ചെയ്യുന്നു അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനാൽ ഉപകരണത്തിന്റെ രണ്ടു വശത്തും നിങ്ങൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് ഒരു വഴിയാണ് മറ്റൊരു മാർഗം ന്യൂ മറിക്ക് താരതമ്യം ആണ് ഇത് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സൂചിപ്പിച്ചതു പോലെ പാസ് കീ എൻട്രിയിൽ യൂസർക്ക് രണ്ട് ഉപകരണങ്ങളിലും സമാനമായ പാസ് കീ ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്നു അത് അല്ലെങ്കിൽ ഒരു ഉപകരണം പാസ് കീ പ്രദർശിപ്പിക്കുകയോ യൂസർ പാസ് കീ മറ്റ് ഉപകരണങ്ങളിലേക്ക് ഇവിടെയുള്ളതുപോല പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഇതു ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് മൂന്നാമത്തെ രീതിയിൽ ചെയ്യാൻ കഴിയും ഈ രീതിയിൽ നിങ്ങൾ ബാൻഡിന്റെ പുറത്താണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഫോണുകളുണ്ടെങ്കിൽ രണ്ട് ഫോണുകൾക്കിടയിൽ ഒരു NFC ചാനൽ ഉണ്ട് ഇപ്പോൾ ഈ പ്രത്യേക പാസ് കീ നിങ്ങൾക് ഇപ്പോൾ ബാൻഡിൽ നിന്ന് കൈമാറാൻ കഴിയും ഇതിനെ ഔട്ട് ഓഫ് ബാൻഡ് എന്ന് വിളിക്കുന്നു നിങ്ങൾ BLE ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ പാസ് കീ കൈമാറാൻ നിങ്ങൾ മറ്റേതെങ്കിലും ചാനൽ ഉപയോഗിക്കുന്നു OOB ശേഷിയുള്ള ഒരു ഉപകരണമെങ്കിലും ഇതിനകം തന്നെ ബാൻഡിൽ നിന്ന് കൈമാറ്റം ചെയ്തിരിക്കണം സാധാരണയായി ക്രിപ്റ്റോഗ്രാഫിക് വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട മോഡലാണ് ഔട്ട് ഓഫ് ബാൻഡ് അസോസിയേഷൻ മോഡൽ ഇവിടെ വിവരങ്ങൾ പങ്കിടുന്നതിന് ഉപയോഗിക്കുന്ന ഠഠB പ്രോട്ടോക്കോളിന്റെ MITM പ്രതിരോധത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അതാണ് മൂന്നാമത്തെ വഴി നാലാമത്തെ വഴി വെറും ജസ്റ്റ് വർക് എന്ന് വിളിക്കുന്നു MITM പരിരക്ഷണം ആവശ്യമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് വളരെ പരിമിതമായ IO കഴിവുകൾ ഉള്ളപ്പോഴോ ഈ അസോസിയേഷൻ മോഡൽ വളരെ ആവേശകരമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇരുവശത്തും ഡിസ്പ്ലേയും കീബോർഡും ഇല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം അവ വളരെ ചെറിയ എംബെഡഡ് ടിവൈസുകളായതിനാൽ അസോസിയേഷൻ മോഡൽ ഉപകരണങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ഇതിന് 4 അസോസിയേഷൻ മോഡലുകളുണ്ട് BLE 4 0 ന് MITM ൽ നിന്ന് രക്ഷനേടുന്നതിനായി 3 അസോസിയേഷൻ മോഡലുകളാണ് ഉള്ളത് MITM നിന്നും രക്ഷ ആവശ്യമില്ലാത്ത അപ്ലിക്കേഷനുകൾക്കായും ഒരു മോഡലുണ്ട് ഇത് MITM ൽ എതിരായി ഒരു റൂട്ട് തരുന്നു ഇത് ഒരു ഓവർകിൽ നടത്തുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലായിരിക്കാം MITMനെ തടയുന്നതിനുള്ള അസോസിയേഷൻ മോഡൽ നിങ്ങൾക്കിപ്പോൾക്ക് അറിയാം മുൻ വെർഷനുകളിൾ ന്യൂമറിക് അസോസിയേഷൻ മോഡലുകൾ ലഭ്യമല്ല അതിനാൽ വീണ്ടും ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പാസ് കീയുടെ ഒരു ടിമോൺസ്ട്രേഷൻ കാണാം അതിൽ ഇൻപുട്ട് ടിവൈസുകൾക്ക് ഈ ഒരു കഴിവില്ല മറിച്ച് IO ടിവൈസുകൾക്ക് ഒരു ഡിസ്പ്ലേയും കീബോർഡും ഉള്ളതിനാൽ ഇത് സാധിക്കുന്നു അതിനാൽ ഈ എoെബഡഡ് ടിവൈസുകളിൽ നിന്നും കിട്ടുന്ന ടാറ്റയെക്കുറിച്ചുള്ള ഒരു ടെ മോ ആണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത് നോർഡിക്കിൽ നിന്നുളള 4 2 സപ്പോട്ട് ചെയ്യുന്ന ഒരു എംബെഡഡ് ടി വൈസാണിത് ഇത് നിങ്ങൾ റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡാറ്റയാണ് നിങ്ങൾക്ക് ഒരു നിശ്ചിത സ്റ്റെപ്പുകളിലൂടയേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളു എങ്കിൽ മാത്രമേ പാസ് കീ നൽകുമ്പോൾ നിങ്ങൾക്ക് ടാറ്റ കിട്ടുകയുള്ളു ഇത് മാധുരി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മാധുരി അത് കണക്റ്റുചെയ്യുമ്പോൾ അത് ഒരു അജ്ഞാത സർവീസ് UUID യാണെന്ന് പറയുന്നു അതുകൊണ്ട് അവൾ അതിൽ ക്ലിക്കുചെയ്യുന്നു അതിനുശേഷം അൺനോൺ കാരക്ടറിസ്റ്റിക്സ് ലഭ്യമാണ് അത് നമുക്ക് റീഡ് ചെയാൻ കഴിയും അവർ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെയറിംഗ് റിക്വസ്റ്റ് വരുന്നു തുടർന്ന് അവർ ബ്ലൂടൂത്ത് പെയേർട് ടി വൈസിൽ ടൈപ്പുചെയ്യുന്നു അതാണ് അവർ നൽകുന്ന പാസ് കീ ഒരിക്കൽ ക്ലിക് ചെയ്താൽ അവർക്ക് ഡാറ്റ വാല്യു ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 2D F0 7 5 C 6 2 F 3 0 എന്ന വാല്യം ആണ് പാസ് കീ നൽകിയിലെങ്കിൽ ഡാറ്റ ആക്സസ് സാധ്യമാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചകമാണിത് കീ എവിടെയാണ് ഉള്ളത് അത് ഈ ടിവൈസിലോ ഈ എംബെഡഡ് ടിവൈസിലോ ഈ ഫോണിലോ ആണ് ഞങ്ങൾ ഒരു കീയും ഇപ്പോൾ ടൈപ്പുചെയ്തിട്ടില്ല കാരണം ഷെയേർഡ് കീ ഇതിനകം തന്നെ ഇരുവശത്തും പ്രൈം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ നൽകുന്നത് പാസ് കീ മാത്രമാണ് അതിനാൽ ഇത് പ്രധാനമാണ് ഞങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു പാസ് കീ നൽകിയതായി നിങ്ങൾ കണ്ടല്ലോ കാരണം ആ കീ ഉപയോഗിച്ച് ലിങ്ക് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു അത് ഇതിനകം തന്നെ ടിവൈസുകളുടെ ഇരുവശത്തും ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്